ഇനി നമ്മൾക്ക് ഷെഡ്യൂളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആയ റിക്കവറബിളിറ്റിയിലേക്ക് കടക്കാം നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് സീരിയലിസബിലിറ്റി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലിസബിലിറ്റി പിന്നെ വ്യൂ സീരിയലിസബിലിറ്റി എന്നിവയെക്കുറിച്ചാണ് അവ തുല്യമാണോ എന്നാണ് നമ്മൾ നോക്കിയിരുന്നത് ഷെഡ്യൂളിന്റെ എല്ലാ ട്രാൻസാക്ഷനുകളും ശരിയാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അതിൻറെ അർത്ഥം എല്ലാ ഓപ്പറേഷനുകളും ശരിയായി നടന്നു എന്നാണ് കൂടുതൽ ട്രാന്സാക്ഷനുകളിലും എന്താണ് സംഭവിക്കുന്നത് അത് അവിടെയുള്ള ഓർഡർ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിനെ നിഷ്ഫലം ആക്കി കളയാറുണ്ട് ഈ ട്രാന്സാക്ഷനിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാം അല്ലെങ്കിൽ സാധിക്കാതെ ഇരിക്കാം അതാണ് റിക്കവറബിളിറ്റിയുടെ പഠനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സീരിയലിസബിലിറ്റി പഠനത്തിൽ നമ്മൾ കമ്മിറ്റിനേയും അബോർട്ടിനേയും അവയുടെ ഓർഡറിനെ കുറിച്ചും നോക്കിയിരുന്നില്ല പ്രധാനമായും ട്രാൻസാക്ഷൻ കമ്മിറ്റ് അബോർട്ട് എന്നിവ ചെയ്യുന്ന സമയത്ത് വരുന്ന ഓർഡറിനെ കുറിച്ച് നമ്മൾ നോക്കിയില്ല അവയെ കുറിച്ചാണ് നമ്മൾ ഇനി ഷെഡ്യൂളിലെ റിക്കവറബിളിറ്റിയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഷെഡ്യൂളുകളുടെ റിക്കവറബിലിറ്റി ഇവിടത്തെ പ്രധാനപ്പെട്ട ആശയം എന്നത് കമ്മിറ്റിന്റേയും ബോർഡിന്റേയും ട്രാൻസാക്ഷനുകളുടെ ഓർഡർ ആണ് ഇനി നമുക്ക് റിക്കവറബിൾ ഷെഡ്യൂൾ എന്താണ് എന്നുള്ളത് നോക്കാം ഷെഡ്യൂൾ എന്നത് നമുക്ക് ചില കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ റിക്കവറബിൾ ഷെഡ്യൂൾ എന്താണ് എന്ന് വച്ചാൽ ഉദാഹരണത്തിന് ഷെഡ്യൂളിൽ ട്രാൻസാക്ഷൻ Ti ഡേറ്റ ഐറ്റം x നെ വായിക്കുന്നു അത് നേരത്തെ മറ്റൊരു ട്രാൻസാക്ഷൻ ആയ Tj ഇതേ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് വായിച്ചതാണ് അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് ഹോൾഡ് ചെയ്യുന്നതു തന്നെയാണ് രണ്ടാമത്തെ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നത് Ti കമ്മിറ്റ് ചെയ്യുന്നതിനു മുൻപു തന്നെ Tj കമ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നു വച്ചാൽ Ti റീഡ് ചെയ്യുന്നത് നേരത്തെ Tj പ്രൊഡ്യൂസ് ചെയ്തത് ആണ് Tj ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നു എന്നതിനർത്ഥം എന്താണോ എഴുതിയിരിക്കുന്നത് അത് ശരിയാണ് എന്നാണ് Ti റീഡു ചെയ്യുന്നത് ശരിയാകണമെന്നില്ല ഇതിനെ നമുക്ക് മറ്റ് വാക്കുകളിൽ പറയാം ഉദാഹരണത്തിന് ടി ജെ അബോർട്ട് ആകുകയാണ് അതിന്റെ അർത്ഥം എന്നത് എന്താണോ Tj എഴുതിയിരിക്കുന്നത് അതിൽ തിരിച്ചു പോയതിനു ശേഷം അത് ചെയ്തില്ല എന്ന് വരുത്തണം അതായത് Ti എന്താണോ റീഡ് ചെയ്തത് അത് Tj എഴുതിയതാണ് അതു കാരണം ഇത് റീഡു ചെയ്യുവാൻ പാടില്ലായിരുന്നു കാരണം അത് അൺഡൺ ചെയ്തിരിക്കുകയാണ് Ti ഇവിടെ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് കാരണം അത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റായ മൂല്യത്തെ റീഡ് ചെയ്തിട്ടാണ് അതു കാരണം അത് അനുവദിക്കുവാൻ സാധിക്കുകയില്ല അതുകാരണമാണ് ഷെഡ്യൂൾ റിക്കവറബിൾ ആകുന്നത് Tj Ti കമ്മിറ്റ് ചെയ്യുന്നതിനു മുമ്പ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ആദ്യത്തെ കണ്ടിഷൻ നടന്നു എന്നുണ്ടെങ്കിൽ ഇനി നേരെ ഒരു ഉദാഹരണത്തിലേക്ക് കടക്കാം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് അതിൽ കാണാം ഉദാഹരണത്തിന് നമ്മുടെ ഷെഡ്യൂൾ ഇതാണ് r1 പിന്നെ അതിനു ശേഷം w1 പിന്നെ ഒരു r2 അപ്പോൾ ട്രാൻസാക്ഷൻ 2 ഇവിടെ റീഡ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് ട്രാൻസാക്ഷൻ 1 മറ്റൊരു ഡേറ്റ ഐറ്റത്തെയാണ് റീഡ് ചെയ്യുന്നതെന്നു വയ്ക്കുക അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നു വച്ചാൽ ട്രാൻസാക്ഷൻ 2 ട്രാൻസാക്ഷൻ 1 എഴുതിയതിനെയാണ് റീഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിയമം പറയുന്നത് എന്താണെന്നു വച്ചാൽ Tj Ti കമ്മിറ്റു ചെയ്യുന്നതിനു മുൻപു തന്നെ കമ്മിറ്റ് ചെയ്യണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നു വച്ചാൽ ദാ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പരിചയപ്പെട്ടുത്തുകയാണ് ഇതിനു ശേഷം ഇവിടെ c2 കാരണം കമ്മിറ്റ് ആയതാണ് ഇവിടെയുള്ളത് ഇവിടെ അപ്പോൾ വരുന്ന ചോദ്യം എന്നത് ഈ ഷെഡ്യൂൾ റിക്കവറബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഞാൻ ഇവിടെ വിചാരിക്കുന്നത് c 2 ഇവിടെ കമ്മിറ്റ് ചെയ്യുകയാണ് എന്നാണ് അതിനു ശേഷം c1 ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നു ഇത് റിക്കവറബിൾ അല്ല കാരണം c2 c1 ന് മുൻപ് കമ്മിറ്റ് ചെയ്യാൻ പാടില്ല അതിനു കാരണമെന്താണെന്നു വച്ചാൽ ദാ ഇത് c1 അത് ഇവിടെ കമ്മിറ്റ് ചെയ്യാൻ പാടില്ല അത് ഇവിടെ ഒരു കമ്മിറ്റ് അല്ല പകരം അത് c1 കാരണം അബോർട്ട് ആകുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നു വച്ചാൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മൂല്യങ്ങൾ തെറ്റാണ് അതായത് ഈ ഒരു റീഡ് എന്നത് w1 ൽ നിന്നു വന്നതാണ് അതും തെറ്റാണ് എന്തായാലും ഇത് നേരത്തെ കമ്മിറ്റ് ആയി പോയതാണ് അപ്പോൾ സിസ്റ്റം ഇവിടെ എത്തുമ്പോഴേക്കും അത് കണ്ടു പിടിക്കുന്നു ഇത് അബോർട്ട് ആയതിനെയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കമ്മിറ്റ് എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ഡ്യൂറബിലിറ്റിയുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തു എന്നു വരുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് എന്താണോ കമ്മിറ്റ് ചെയ്തത് അത് അവസാന വാക്കാണ് എന്നും ശരിയാണ് എന്നും കരുതപ്പെടുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നവും ഇത് റിക്കവറബിൾ അല്ല അതായത് ഈ ഒരു ഷെഡ്യൂൾ റിക്കവറബിൾ അല്ല ഇതിനെ അപ്പോൾ റിക്കവറബിൾ ആക്കുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു കേസിൽ ഇതാണ് ഷെഡ്യൂൾ അപ്പോൾ r2 r1 അങ്ങനെ അങ്ങനെ c1 അപ്പോൾ c1 ട്രാൻസാക്ഷൻ 1 ആയിരിക്കണം ആദ്യം കമ്മിറ്റ് ചെയ്യേണ്ടത് അതിനു ശേഷം ട്രാൻസാക്ഷൻ 2 കമ്മിറ്റ് ചെയ്യണം a കമ്മിറ്റിന്റെ ഓർഡർ വളരെ പ്രധാനമാണ് ഈ ഒരു കാരണത്താലാണ് നമ്മൾ റിക്കവറബിളിറ്റി പഠിക്കുന്നത് a കമ്മിറ്റിന്റെയും അബോർട്ടിന്റെയും ഓർഡറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതാണ് ഇത് റിക്കവറബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള മാർഗം അപ്പോൾ ഇത് പ്രവർത്തിക്കുവാനുളള കാരണം എന്താണ് എന്നു വച്ചാൽ ഉദാഹരണത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കേസ്സുപോലെ ഇത് കമ്മിറ്റ് ചെയ്യുന്നത് ശരിയല്ല ഇത് അബോർട്ട് ആണ് അങ്ങനെ വരുകയാന്നെങ്കിൽ അതായത് ഇത് അബോർട്ട് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഉണ്ടാക്കിയിരിക്കുന്ന മൂല്യം തെറ്റാണെന്നാണ് അതായത് ഈ r2 ഉം തെറ്റാണ് അതുപക്ഷേ കുഴപ്പമില്ല കാരണം ആ സമയം ട്രാൻസാക്ഷൻ 2 അബോർട്ട് ആയി പോകും അത് കമ്മിറ്റ് ആകുന്നില്ല കാരണം ഇത് തെറ്റാണെന്ന് വായിക്കുന്നു അതു കൊണ്ട് ഇതിനും അബോർട്ട് ആയി പോകാം അപ്പോൾ ഇവിടെ റിക്കവറബിലിറ്റിയിൽ ഒരു പ്രശ്നം വരുന്നില്ല ഇത് റിക്കവറബിൾ ആയതിനാൽ ഒരു പ്രശ്നവും വരുന്നില്ല പക്ഷേ അത് ഇവിടെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് അതിനെ പറയുന്നത് പ്രോബ്ളം ഓഫ് കാസ്കേടിങ്ങ് റോൾബാക്ക് എന്നാണ് റോൾ ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷനെ നിഷ്ഫലമാക്കുന്നത് പോലത്തെ കാര്യങ്ങൾ ആണ് അപ്പോൾ ഒരു അബോർട്ട് സംഭവിക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ തിരിച്ചു പോകും അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്യും അതായത് എല്ലാ മൂല്യങ്ങളെയും ഇത് നിഷ്ഫലമാക്കും എന്നിട്ട് പഴയ മൂല്യങ്ങൾ എഴുതും അതാണ് റോൾ എന്നുദ്ദേശിക്കുന്നത് ഇനി പ്രശ്നം എന്താണെന്നു വച്ചാൽ ഈ ട്രാൻസാക്ഷൻ റിക്കവറബിൾ ആണെങ്കിൽ ഒരു നിരയായി റോൾ ബാക്ക് ഉണ്ടാകാം അതു പോലത്തെ കാര്യങ്ങൾ നേരത്തത്തെ ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടതാണ് ട്രാൻസാക്ഷൻ 1 വഴി ഒരു അബോർട്ട് ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ 2 വിന്റെ അബോർട്ടിനും അത് കാരണമാകും അപ്പോൾ ഒരു പൊതു ധാരണയിൽ ഇത് ട്രാൻസാക്ഷൻ 3 യിൽ വരുന്ന അബോർട്ടിന് കാരണമാകും അങ്ങനെ അങ്ങനെ ഒരുപാട് റോൾ ബാക്കുകൾ ഉണ്ടാകാം ഒരു ഒറ്റ ട്രാൻസാക്ഷൻ അബോർട്ട് അല്ലെങ്കിൽ റോൾ ബാക്ക് ആയതിനാൽ ഇതു സംഭവിക്കും ഇതാണ് വരിവരിയായി വരുന്ന കാസ്കേടിങ്ങ് റോൾ ബാക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാം ഒരു ട്രാൻസാക്ഷൻ റിക്കവറബിൾ ആയാലും ഇനി ഈ ഒരു കാര്യത്തെ കുറച്ചു കൂടി നന്നായി മനസ്സിലാക്കിക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം കാണിക്കാം ഇത് ഷെട്യൂൾ ആണ് എന്ന് കരുതുക അവിടെ r1 പിന്നെ W1 r2 W2 r3 W3 എന്നിവ ഉണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതു പോലെ ഇത് റിക്കവറബിൾ ആക്കാൻ വേണ്ടി അവിടെ r1 ആയിരിക്കണം ആദ്യം കമ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ r2 പിന്നെ r3 പക്ഷെ ഇനി r1 അബോർട്ട് ആകുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും r1 അബോർട്ട് ആകുന്നതു കാരണം r2 ഉം അബോർട്ട് ആകണം ഇത് അബോർട്ട് ആയതു കാരണം r3 യും അബോർട്ട് ആകും ഇതാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് അതായത് a1a2 വിനെ അബോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പിന്നെ അത് a3 യെ അബോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അപ്പോൾ a1 എന്നത് അബോർഷനെ പ്രതിനിധീകരിക്കുന്നു c എന്നത് കമ്മിറ്റിനെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ കമ്മിറ്റും അബോർട്ടും c യും a യും ആണ് ഇവിടെ അപ്പോൾ തുടർച്ചയായുള്ള റോൾ ബാക്ക് ഉണ്ടാകുന്നു ഇതാണ് റിക്കവറബിൾ ഷെഡ്യൂളിൽ വരുന്ന ഒരു പ്രശ്നം അത് ശരിയാക്കാനുള്ളതിന് വളരെ നല്ലതാണ് പക്ഷെ ഒരുപാട് ജോലികളെ നിഷ്ഫലം ആക്കുകയും ചെയ്യും ഒരുപാട് സമയം റിക്കവർ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് അബോർട്ടുകളും നടക്കുന്നുണ്ട് ഇത് കാരണം ഷെഡ്യൂളിന് ഡേറ്റാബേസിനെ റിക്കവർ ചെയ്യാൻ സമയമെടുക്കുന്നു ഇനി അടുത്തു വരുന്ന ആശയം എന്നത് കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂൾ എന്നതാണ് ഈ കാസ്കേഡിംഗ് റോൾ ബാക്കിനെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ കാസ്കേഡിംഗ് റോൾ ബാക്കിനെ നമുക്ക് കളയാൻ സാധിക്കും ഒരു ഷെഡ്യൂൾ കാസ്കേഡ്ലെസ്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു കാസ്കേഡിംഗ് റോൾ ബാഗും ഉണ്ടാകില്ല കുറച്ചു കൂടി നല്ല വിവരണം എന്നത് ഒരു ട്രാൻസാക്ഷൻ Ti x നെ റീഡ് ചെയ്യുകയാണ് അതിനെ നേരത്തെ ട്രാൻസാക്ഷൻ Tj എഴുതിയതാണ് അപ്പോൾ ഇവിടെ ഇനി Tj Ti റീഡ് ചെയ്യുന്നതിനു മുൻപു തന്നെ കമ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ഇതിന്റെ വിവരണവും റിക്കവറബിൾ ഷെഡ്യൂളിൽ നിന്ന് വ്യത്യസ്തമാണ് റിക്കവറബിൾ ഷെഡ്യൂളിൽ ആദ്യത്തെ കണ്ടീഷൻ ഒരു പോലെ ആയിരിക്കണം Ti എന്തെങ്കിലും റീഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ Tj നേരത്തെ എഴുതിയിരിക്കണം Tj നേരത്തെ Ti കമ്മിറ്റ് ആകുന്നതിനു മുൻപ് കമ്മിറ്റ് ആയിരിക്കണം അതാണ് റിക്കവറബിൾ ഷെഡ്യൂൾ ഇനി ഈ പുതിയ കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളിൽ Tj Ti റീഡ് ചെയ്യുന്നതിനു മുൻപെ കമ്മിറ്റ് ചെയ്തിരിക്കണം Tj ഇവിടെ റീഡ് നടക്കുന്നതിനു മുൻപെ കമ്മിറ്റ് ആകുകയാണ് അപ്പോൾ Tj ശരിയായി വരുകയാണെങ്കിൽ അതിന്റെ അർത്ഥം റീഡ് ശരിയാണ് എന്നതാണ് അപ്പോൾ ഇവിടെ റീഡ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നില്ല ഇനി Tj തെറ്റാണെന്നു വരുകിൽ അത് അബോർട്ട് ആകുകയും ചെയ്യുകയാണെങ്കിൽ Ti പാഴാക്കുന്നില്ല എന്നാണ് വരുക കാരണം അത് Ti യെ വായിക്കുകയല്ല കാരണം Ti Tj യെ വായിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഇവിടെ Ti ക്ക് സ്വന്തമായി അബോർട്ട് ആകേണ്ടി വരുന്നില്ല കാരണം ഇത് Tj യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല അത് കാരണം ഇതിന് Ti യുടെ കാസ്കേഡിംഗ് റോൾ ബാക്കിനെ ഒഴിവാക്കാൻ സാധിക്കുന്നു ഇനി Tj റോൾ ബാക്ക് ആകുന്നു അതാണ് ഈ കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളിന്റെ വിവരണം ദാ ഇവിടെ ഒരു ഉദാഹരണം നേരത്തെ കാണിച്ച ഉദാഹരണം പോലെ തന്നെയാണ് ഇത് ഇവിടെ r1 w1 പിന്നെ r2 ra എന്നിവ ഉണ്ട് ഇനി യഥാർത്ഥ പ്രശ്നം എന്താണെന്നു വച്ചാൽ ഈ ഒരു അബോർട്ട് നടക്കുകയാണെങ്കിൽ കമ്മിറ്റ് അബോർട്ട് ആയി മാറണം അതു കാരണമാണ് ഇത് റിക്കവറബിൾ ആകുന്നത് പക്ഷെ കാസ്കേഡ്ലെസ്സ് അല്ല ഇനി അതിനെ കാസ്കേഡ്ലെസ്സ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നു വച്ചാൽ ദാ ഇവിടെ r1w1 എന്നിവ ഉണ്ട് r2 യ്ക്ക് a1 നേക്കാൾ മുൻപെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആകണം പക്ഷെ ടാൻസാക്ഷൻ 1 കമ്മിറ്റ് ആകണമെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ പൂർത്തിയാക്കണം അപ്പോൾ r1 അതിനു ശേഷം ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആകുന്നു പിന്നെ ട്രാൻസാക്ഷൻ 2 അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നു വച്ചാൽ അത് ചെയ്യുന്നു കാരണം ഈ റീഡ് ഈ റൈറ്റിനെ ആശ്രയിച്ചാണിരിക്കുന്നത് അപ്പോൾ ഈ കമ്മിറ്റ് ഈ റീഡ് നടക്കുന്നതിനു മുൻപേ നടക്കണം ഇനി നിങ്ങൾക്കിവിടെ കാണാം ഇവിടെയുള്ള നല്ല കാര്യം എന്താണെന്നു വച്ചാൽ ഇത് അബോർട്ട് ആയി പോകുകയാണെങ്കിലും ട്രാൻസാക്ഷൻ 2 ഒന്നും ചെയ്തിട്ടില്ല അത് കാരണം അത് തുടങ്ങുന്നില്ല അത് അബോർട്ട് ആകുകയും ചെയ്യേണ്ടി വരുന്നില്ല t2 വിന്റെ അടുത്തേക്ക് അബോർട്ട് ആകാനും കമ്മിറ്റ് ആകാനുമുള്ള ഒരു ചോദ്യമേ വരുന്നില്ല കാരണം അത് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇത് ആദ്യത്തെ ഉദാഹരണമല്ല ഇത് കാസ്കേഡ്ലെസ്സ് അല്ല പക്ഷെ റിക്കവറബിൾ ആണ് പക്ഷെ ഇത് കാസ്കേഡ്ലെസ്സും റിക്കവറബിളും ആണ് അപ്പോൾ ഇവിടുത്തെ ആശയം എന്നത് പൂർത്തിയായിട്ടുള്ള ട്രാൻസാക്ഷന് തിരിച്ചു പോകേണ്ടി വരുന്നില്ല കാരണം t2 പൂർത്തിയായിട്ടില്ല അത് കാരണം അതിന് റോൾ ബാക്ക് ചെയ്യേണ്ടി വരുന്നില്ല പൂർത്തിയായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനും റോൾ ബാക്ക് ആകുന്നില്ല അതാണ് ഈ കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളിന്റെ ഉപയോഗം ഇതാണ് അപ്പോൾ കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളിന്റെ വിവരണവും സവിശേഷതയും ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്നു വച്ചാൽ കാസ്കേഡ്ലെസും റിക്കവറബിളും സീരിയലിസബിലിറ്റിയും കോൺഫ്ലിറ്റും സീരിയലിസബിലിറ്റിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് കാസ്കേഡ്ലെസ്സും റിക്കവബിളും തമ്മിലും ഒരു ബന്ധമുണ്ട് നമ്മൾ ആദ്യം കണ്ട ഉദാഹരണത്തിൽ റിക്കവറബിൾ ആണ് വന്നത് കാസ്കേഡ്ലെസ്സ് ആയിരുന്നില്ല രണ്ടാമത്തെ ഉദാഹരണത്തിന് കാസ്കേഡ്ലെസ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതും റിക്കവറബിൾ ആണെന്നു കാണാം ഇത് യാദൃശ്ചികമായി വന്നതല്ല നമുക്ക് അതിനെ ഇങ്ങനെ പറയാം അതായത് കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളുകൾ റിക്കവറബിളാണ് ഇതിനെ നമുക്ക് രണ്ടു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് സാമാന്യബുദ്ധി ഉപയോഗിച്ചും രണ്ടാമത്തേത് നമുക്ക് വിവരണം വച്ചും തെളിയിക്കാൻ സാധിക്കും ഇനി കാസ്കേഡ്ലെസ്സിന്റെ വിവരണം പറയുന്നത് എന്താണെന്നു വച്ചാൽ Ti Tj കമ്മിറ്റ് ചെയ്യുന്നതിനു മുൻപെ വായിക്കുന്നില്ല അതായത് Ti ക്ക് കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം Ti ക്ക് റീഡിംഗ് ഓപ്പറേഷൻ ആണുള്ളത് കമ്മിറ്റ് എന്നത് ഓപ്പറേഷന്റെ അവസാന ഭാഗമാണ് ട്രാൻസാക്ഷൻ ഓപ്പറേഷന്റെ അവസാന ഭാഗമാണ് ഇനി Ti വായിക്കുന്നത് Tj കമ്മിറ്റ് ചെയ്തതിനു ശേഷമാണെങ്കിൽ Tj കമ്മിറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും Ti കമ്മിറ്റ് ചെയ്യുന്നത് അതിന്റെയർത്ഥം എല്ലാ കാസ്കേഡ് ലെസ്സ് ഷെഡ്യൂളുകളും റിക്കവറബിൾ ആണ് എന്നാണ് പക്ഷെ തിരിച്ച് അല്ല അതിനുള്ള ഉദാഹരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അത് തിരിച്ച് നടക്കാത്തത് എന്ന് ഇനി ഇതെല്ലാം ശരിയാണെന്ന് നമുക്ക് കാണാം പക്ഷെ ഇനിയും ഒരു ചെറിയ പ്രശ്നം ഇവിടെ വരുന്നുണ്ട് കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളിനു ശേഷം എഴുതുന്നതിന്റെ പ്രശ്നം ബാക്കിയാകുകയാണ് റൈറ്റ് അപ്പോൾ ഒരു പ്രശ്നമായി ബാക്കി വരുകയാണ് അത് പിന്നീടുള്ള ട്രാൻസാക്ഷനാണ് എല്ലാ കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളുകളും പറയുന്നത് Tj എഴുതുന്നത് Ti വായിക്കുന്നത് എന്നാണ് ട്രാൻസാക്ഷൻ Tj എന്താണ് എഴുതുന്നത് എന്നതിനെക്കുറിച്ച് ഒരിടത്തും പരാമർശിക്കുന്നില്ല ഉദാഹരണത്തിന് ഒരേ ഡേറ്റ ഐറ്റം ആണ് Tj എഴുതുന്നതെന്നു വയ്ക്കുക അതും Ti എഴുതുന്നതിനെ വായിക്കുന്നില്ല പകരം അത് വെറുതെ എഴുതുകയാണ് അതിനു ശേഷം Ti യുടെ കമ്മിറ്റ് നടക്കുന്നതിനു മുൻപു തന്നെ ഇത് കമ്മിറ്റ് ചെയ്യുകയാണ് ഇനി അതും തെറ്റാണ് കാരണം അത് പിന്നീടാണ് എഴുതേണ്ടത് ഇതിനു മുൻപ് അല്ല എഴുതേണ്ടത് അപ്പോൾ ഈ റൈറ്റിന്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല അതിന്റെ കൂടെ തന്നെ റിക്കവറബിളുകളും കാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളുകളും ഇതിനെക്കുറിച്ച് പറയുന്നതേയില്ല ഇനി അടുത്ത വിവരണം എന്നത് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ആണ് അവിടെ ഇത് റൈറ്റിന്റെ അവസ്ഥയേയും കൈകാര്യം ചെയ്യുന്നു നമുക്ക് അതിന്റെ വിവരണത്തെക്കുറിച്ച് ആദ്യം നോക്കാം ഇവ ഏകദേശം മുൻപുള്ളതുപോലെ തന്നെയാണ് Ti റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇതാണ് വ്യത്യാസം വരുക അതായത് Ti x നെ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നു അത് നേരത്തെ Tj എഴുതിയതാണ് അപ്പോൾ Tj മറ്റെന്തും റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനു മുൻപു തന്നെ കമ്മിറ്റ് ചെയ്യുന്നു Ti റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനു മുൻപെ ഇത് വെറും റീഡിനും റൈറ്റിനും വേണ്ടിയുള്ളതല്ല അത് കാസ്കേഡ്ലെസ്സിന്റെ വിവരണത്തെ കുറച്ചു കൂടി നന്നാക്കുന്നു അവിടെ റൈറ്റിനെക്കൂടി ഉൾക്കൊള്ളിക്കുന്നു ഇതാണ് കുറച്ചുകൂടി നല്ല കാസ്കേഡ്ലെസ്സ് ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിലേക്കു കടക്കാം അതായത് r1 പിന്നെ w1 w2 r1 അങ്ങനെ ഇവിടെ ഇത് എന്താണ് പറയുന്നത് എന്നു വച്ചാൽ ഇത് c1 ന്റെ കമ്മിറ്റാണ് പിന്നെ c 2 വിന്റെ കമ്മിറ്റ് ഇതു വരെ കുഴപ്പമില്ല ഇത് സ്ട്രിക്റ്റല്ല കാരണം ഇവിടെ ഒരേ ഡേറ്റ ഐറ്റം ആയ x നെ എഴുതുന്നു അത് C1 കമ്മിറ്റ് ചെയ്യുന്നതിനു മുൻപെ അത് കാരണം ഇത് സ്ട്രിക്റ്റല്ല പക്ഷെ അത് കാസ്കേഡ്ലെസ്സ് ആണ് അപ്പോൾ ഈ ഒരു ജോലി C1 ന് മുൻപെ ചെയ്യണം അപ്പോൾ അത് സ്ട്രിക്റ്റാകും ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായുണ്ട് അതായത് r1 w1 r1 പിന്നെ കമ്മിറ്റ് അതിനു ശേഷം w2 c2 എന്നത് അപ്പോൾ ഇത് സ്ട്രിക്റ്റ് ആകും ഇനി ക്യാസ്കേഡ്ലെസ്സും സ്ട്രിക്റ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ സ്ട്രിക്റ്റ് ഷെഡ്യൂളുകളും ക്യാസ്കേഡ്ലെസ്സ് ആണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാം പക്ഷെ അത് തിരിച്ച് അല്ല ഈ ഒരു ഉദാഹരണം ക്യാസ്കേഡ്ലെസ്സിനെ കാണിക്കുന്നു പക്ഷെ അത് സ്ട്രിക്റ്റ് അല്ല നമുക്ക് അതിനെ കുറച്ചു കൂടി മനസ്സിലാക്കാൻ അതിന്റെ വിവരണം ഉപയോഗിക്കാം സ്ട്രിക്റ്റ് പറയുന്നത് എന്താണെന്നു വച്ചാൽ Tj യിൽ നിന്നുള്ളതിനെ Ti വായിക്കുകയോ എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള കമ്മിറ്റ് വായിക്കുന്നതിനും എഴുതുന്നതിനും മുൻപെ നടക്കണം അപ്പോൾ ഇവിടെ റീഡും റൈറ്റും റീഡിസ്നെ കവർ ചെയ്യുന്നു അതായത് എല്ലാ സ്ട്രിക്റ്റ് ഷെഡ്യൂളുകളും ക്യാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളുകൾ ആണ് പക്ഷെ അത് തിരിച്ച് അല്ല ഈ ഒരു ഉദാഹരണം അതിനെ കാണിക്കുന്നു ഇവിടെയെല്ലാം നമുക്ക് ശരിയായി തോന്നാം പക്ഷെ ഇവിടെ വരുന്ന ചോദ്യം എന്നത് സ്ട്രിക്റ്റ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമായിട്ടുള്ളത് എന്നതാണ് നമ്മൾ എന്തുകൊണ്ടാണ് a യെ എഴുതുന്നതിനെ ഇത്രക്ക് പ്രധാനമായി കാണുന്നത് അതിനു ശേഷം എന്തു സംഭവിക്കുന്നു ഈ ഒരു ഷെഡ്യൂളിൽ എന്തു പ്രശ്നമാണ് വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നു വച്ചാൽ ഇത് സ്ട്രിക്റ്റ് അല്ല പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം വരുന്നത് പ്രശ്നം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതു തന്നെയാണ് വ്യൂ സീരിയലിസബിലിറ്റിയിൽ കണ്ടത് w2 എന്നത് ഒരു ബ്ലൈന്റ് റൈറ്റ് ആണ് അതിന്റെ അർത്ഥം w2 മറ്റ് ഏതെങ്കിലും മൂല്യത്തെ വായിച്ചിട്ട് വന്നതായിരിക്കും ഇനി ട്രാൻസാക്ഷൻ 1 അബോർട്ട് ആകുകയാണെങ്കിൽ അത് ശരിയാകണമെന്നില്ല ട്രാൻസാക്ഷൻ 2 വെറുതെ ബ്ലൈന്റ് റൈറ്റ് ചെയ്യും എന്നിട്ട് വിജയകരമായി കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും അത് നടക്കാൻ പാടില്ല വീണ്ടും ഇതൊരു പൂർത്തിയായ ട്രാൻസാക്ഷൻ ആയി മാറും അത് മറ്റേതെങ്കിലും ട്രാൻസാക്ഷനെ ആശ്രയിച്ചു നിൽക്കുന്നതിന് മുൻപ് തന്നെ നടക്കും അപ്പോൾ അതിനർത്ഥം അവർ എഴുതുന്നത് റൈറ്റ് കോൺഫ്ലിക്റ്റിനെ നേരെചൊവ്വേ കൈകാര്യം ചെയ്യുന്നതിനുശേഷമാണ് അടുത്തത് റൈറ്റ് w2 w1 വിജയകരമായി തീരുന്നതു വരെ കാത്തിരിക്കണം അതായത് ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആകുന്നതുവരെ കാത്തിരിക്കണം അത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഇത് സ്ട്രിക്റ്റ് ആകുന്നത് ഇനി ഇതു മുഴുവൻ തീർക്കാൻ വേണ്ടി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നുവെച്ചാൽ സീരിയൽ ഷെഡ്യൂൾ എന്താണ് സീരിയൽ ഷെഡ്യൂൾ നമുക്ക് ഓർമ്മയൊന്ന് പുതുക്കാം അത് ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞതിനുശേഷം പൂർണ്ണമായും കമ്മിറ്റ് ചെയ്യും അതിനു ശേഷം അടുത്ത ട്രാൻസാക്ഷൻ തുടങ്ങും അതും പൂർണ്ണമായും കമ്മിറ്റ് ചെയ്യും അതിനു ശേഷം മൂന്നാമത്തെ ട്രാൻസാക്ഷൻ അപ്പോൾ എല്ലാ സീരിയൽ ഷെഡ്യൂളും ഈ ഒരു രീതിയിൽ ആണ് പോകുന്നത് കാരണം ട്രാൻസാക്ഷൻ 2 എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് തന്നെ അതായത് ഒരേ ഡേറ്റ ഐറ്റത്തെ അവ എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് തന്നെ ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആകും അപ്പോൾ ഇത് എന്തായാലും സ്ട്രിക്റ്റ് തന്നെയാണ് അതിൻറെ അർത്ഥം ഇത് ക്യാസ്കേഡ്ലെസ്സ് ആണ് റിക്കവറബിൾ ആണ് ദാ ഈ കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള വെൻ ഡയഗ്രം ആണ് ഇതൊക്കെയാണ് സീരിയൽ ട്രാൻസാക്ഷൻ ഇതാണ് സീരിയൽ അപ്പോൾ ഇത് സീരിയൽ ആണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നോക്കാവുന്നതാണ് ദാ ഇവയെല്ലാം സ്ട്രിക്റ്റ് ആണ് അപ്പോൾ സീരിയൽ ട്രാൻസാക്ഷൻ സ്ട്രിക്റ്റ് ആണ് പക്ഷേ മറ്റ് ഷെഡ്യൂളുകളും ഉണ്ട് അവയും സ്ട്രിക്റ്റാണ് പക്ഷേ സീരിയൽ അല്ല പിന്നെ വരുന്നത് ക്യാസ്കേഡ്ലെസ്സ് ഷെഡ്യൂളുകൾ എല്ലാ സ്ട്രിക്റ്റും ക്യാസ്കേഡ്ലസ്സ് ആണ് പക്ഷേ തിരിച്ച് അല്ല പിന്നെയുള്ളത് റിക്കവറബിൾ ഷെഡ്യൂളുകൾ അതിനെക്കുറിച്ചാണ് ഈ വെൻ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി വെൻ ഡയഗ്രം ഉണ്ടാക്കാം നമ്മൾ ഇനി സീരിയലിസബിലിറ്റി ആശയത്തിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വെൻ ഡയഗ്രം ഉണ്ടാക്കാം ഇനി ഇത് സീരിയൽ ആണെങ്കിൽ അതിൻറെ അർത്ഥം അത് കോൺഫ്ലിക്റ്റ് സീരിയലിസബിൾ കൂടിയാണ് പക്ഷേ വേറെ ഒരുപാട് കോൺഫ്ലിക്റ്റ് സീരിയലിസബിൾ ഷെഡ്യൂളുകളും ഉണ്ട് അവ സ്ട്രിക്റ്റ് അല്ല അതുപോലെ എല്ലാ കോൺഫ്ലിക്റ്റ് സീരിയലിസബിൾ ഷെഡ്യൂളുകളും വ്യൂ സീരിയലിസബിൾ ആണ് പക്ഷേ തിരിച്ച് അല്ല നമുക്ക് ഇനി മറ്റൊരു വെൻ ഡയഗ്രം ഇതുപോലെയുള്ളത് നോക്കാം ഒരു ചോദ്യം എന്നത് ഇവ രണ്ടും വെൻ ഡയഗ്രമുകളാണ് അവയെ ഞാൻ ചെറുതാക്കി കാണിക്കാം എന്നിട്ട് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ ഇവിടെ എഴുതി കാണിക്കാം ദാ ഉദാഹരണത്തിന് ഈ സീരിയൽ ഷെഡ്യൂൾ S ആണ് ഇതാണ് നിങ്ങളുടെ S ഇനി ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നു വച്ചാൽ റിക്കവറബിലിറ്റിയും സീരിയലിസബിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ദാ ഇവിടെ വെൻ ഡയഗ്രം ഉണ്ട് ഇതാണ് നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് സീരിയലിസബിൾ ഇതാണ് നിങ്ങളുടെ വ്യൂ സീരിയലിസബിൾ ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകളും ഉണ്ട് അപ്പോൾ ഇത് സ്ട്രിക്റ്റ് ആണ് അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകൾ ഇവിടെയുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവ വ്യൂ സീരിയലിസബിളും അല്ല കോൺഫ്ലിക്റ്റ് സീരിയലിസബിളും അല്ല പക്ഷെ എന്നാലും അവിടെ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഉണ്ട് അവ വ്യൂ സീരിയലിസബിൾ ആണ് പക്ഷെ കോൺഫ്ലിക്റ്റ് സീരിയലിസബിൾ അല്ല പിന്നെ സ്ട്രിക്റ്റ് ഷെഡ്യൂളുകൾ ഉണ്ട് അവ കോൺഫ്ലിക്റ്റ് സീരിയലി സബിളും ആയിരിക്കാം അതിന്റെ അർത്ഥം അവ വ്യൂ സീരിയലിസബിളും ആകാം പക്ഷെ സ്ട്രിക്റ്റ് ആകില്ല അങ്ങനെയങ്ങനെ പിന്നെ സ്ട്രിക്റ്റ് ദാ ഇവിടെ ക്യാസ്കേഡ്ലെസ്സ് ആകാം പിന്നെ അവസാനം റിക്കവറബിൾ ആകാം അപ്പോൾ ഇവിടെ സാധ്യതയുള്ള എല്ലാ സംയുക്തങ്ങളും ഉണ്ട് ഇവിടെ ചില ഷെഡ്യൂളുകൾ ഉണ്ട് അവ വ്യൂ സീരിയലിസബിളും അല്ല റിക്കവറബിളും അല്ല ഇവിടെ മറ്റൊരു ആകർഷകമായ കാര്യം എന്താണെന്നു വച്ചാൽ സിരിയലിസബിലിറ്റിയും റിക്കവറബിലിറ്റിയും എവിടെ വേണമെങ്കിലും വരാം അപ്പോൾ അവിടെ റിക്കവറബിലിറ്റിയുള്ള ഷെഡ്യൂളുകൾ നമുക്ക് എടുക്കുവാൻ സാധിക്കും അവ സീരിയസബിലിറ്റിയുമായി ഇൻഡിപെൻഡൻന്റ് ആണ് അപ്പോൾ ഒരു ഷെഡ്യൂൾ റിക്കവറബിൾ ആണോ അല്ലയോ എന്നത് സീരിയസബിളുമായി ഒരു ബന്ധവും വരുന്നില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കാം ഇത് നിങ്ങൾക്ക് നല്ല ഒരു ഹോം വർക്ക് ആണ് അപ്പോൾ ഇവിടെ ഷെഡ്യൂളിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കുവാൻ സാധിക്കും ചിലത് ഒന്നിനെ പിന്തുടർന്നും മറ്റതിനെ പിന്തുടരുന്നില്ല അങ്ങനെ അങ്ങനെ അപ്പോൾ വെൻ ഡയഗ്രത്തിന്റെ എല്ലാ മാർഗങ്ങളെയും നമുക്ക് ഉദാഹരണങ്ങളായി എടുക്കാം അപ്പോൾ ഷെഡ്യൂളിനെ കുറിച്ചുള്ള മോഡ്യൂൾ ഇവിടെ തീരുകയാണ് ഇനി നമുക്ക് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളിനെ കുറിച്ച് അടുത്ത മോഡ്യൂളിൽ നോക്കാം